രേഖീയമല്ലാത്ത മൂലകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ കണ്ടു നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നോൺലീനിയർ സർക്യൂട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള ഏകദേശ വഴികൾ നോക്കുക എന്നതാണ് രണ്ട് ടെർമിനൽ നോൺലീനിയർ എലമെന്റ് ഉള്ള ഒരു ഉദാഹരണം ഞങ്ങൾ മുമ്പ് പരിഗണിച്ചിട്ടുണ്ട് നമുക്ക് ഇത് സംഖ്യാപരമായോ ഗ്രാഫിക്കലായോ പരിഹരിക്കാൻ കഴിയും എന്നാൽ ഇൻപുട്ടിലെ ഓരോ മാറ്റത്തിനും ഞങ്ങൾ ഇത് വീണ്ടും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് യഥാർത്ഥ ബുദ്ധിമുട്ട് ഇത് സ്വയം ബുദ്ധിമുട്ടാണ് തുടർന്ന് ഇൻപുട്ടിന്റെ ഓരോ മൂല്യത്തിനും ഞങ്ങൾ ഇത് വീണ്ടും ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും നിങ്ങളുടെ സർക്യൂട്ടിൽ സമയം മാറികൊണ്ടിരിക്കുകയാണെകിൽ ഇൻപുട്ട് മാറിക്കൊണ്ടിരിക്കും അതിനാൽ സമയത്തിന്റെ ഓരോ പോയിന്റും വ്യത്യസ്തമാകുന്ന സിഗ്നലുകൾക്ക് നിങ്ങൾ സംഖ്യാ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ കണക്കുകൂട്ടൽ വീണ്ടും ചെയ്യണം ഇത് വളരെ ബുദ്ധിമുട്ടാണ് സർക്യൂട്ടിനെക്കുറിച്ചും ഹാൻഡ് വിശകലനത്തെക്കുറിച്ചും കുറച്ച് ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് ഇവ ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നമുക്ക് എന്തുചെയ്യാനാകുമെന്ന് നോക്കാം ഞങ്ങൾക്ക് ലഭിച്ച ഗ്രാഫിക്കൽ പരിഹാരം ഞാൻ ആവർത്തിക്കും അടിസ്ഥാനപരമായി ഈ സമവാക്യത്തിനായി ഞങ്ങൾ പരിഹരിക്കുകയാണ് റെസിസ്റ്ററിലെ കറന്റ് ഡയോഡിലെ കറന്റിന് തുല്യമാണ് റെസിസ്റ്ററിലെ കറന്റ് R ആണ് അത് ഡയോഡിലെ കറന്റിനു തുല്യമാണ് അത് IS ആണ് അതിനാൽ നമ്മൾ ചെയ്യുന്നത് വലതുവശത്തും ഇടതുവശത്തും ഒരു ഗ്രാഫ് വരച്ച് അവ എവിടെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാണുക അപ്പോൾ ഇത് വലതുവശത്തെ പ്ലോട്ട് ഇത് ഇടതുവശത്തുള്ള പ്ലോട്ട് അവർ ഇവിടെ കണ്ടുമുട്ടുന്നു അതാണ് പരിഹാരം ഇനി VS മാറുമ്പോൾ ഇത് ആവർത്തിക്കേണ്ടി വരും അതിനാൽ VS ന്റെ ഒരു വലിയ മൂല്യത്തിന് ഈ പ്രത്യേക സാഹചര്യത്തിൽ വലത് വശം മാറില്ല എന്നാൽ ഇടത് വശം മാറും കൂടാതെ നമുക്ക് ഒരു പുതിയ പരിഹാരമുണ്ട് രേഖീയമല്ലാത്ത വക്രവുമായി കൂടിച്ചേരുന്ന പുതിയ പോയിന്റ് ഞങ്ങൾ വരുത്തുന്ന ലളിതവൽക്കരണം ഇനിപ്പറയുന്നതാണ് യഥാർത്ഥ പരിഹാരം ഇവിടെയുണ്ടെന്ന് നിങ്ങൾ കാണുന്നു പുതിയത് അവിടെയുണ്ട് VS മാറുന്നതിനനുസരിച്ച് അത് നോൺലീനിയർ കർവിൽ ഒരു പുതിയ പോയിന്റിലേക്ക് നീങ്ങുമെന്ന് ഞങ്ങൾ അനുമാനിക്കും പക്ഷേ അത് വളരെ ദൂരെ നീങ്ങില്ല അതായത് ഈ പോയിന്റ് ഈ പോയിന്റിന് അടുത്താണ് ഇപ്പോൾ അടുത്ത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം നിങ്ങൾ നോൺലീനിയർ കർവിൽ വളരെ ദൂരേക്ക് നീങ്ങുന്നില്ലെങ്കിൽ നമുക്ക് നോൺലീനിയർ കർവ് നേർരേഖയിലൂടെ ഏകദേശം കണക്കാക്കാം നിങ്ങൾ ഏതെങ്കിലും വക്രം എടുക്കുക നിങ്ങൾ അതിന്റെ വളരെ ചെറിയ ഭാഗത്തേക്ക് സൂം ചെയ്യുക അത് ഒരു നേർരേഖ പോലെ കാണപ്പെടും അതിനാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന തത്വം ഇതാണ് അതിനാൽ ഇവിടെയുള്ള ആശയം നമ്മൾ വളരെ അകലെ നീങ്ങുന്നില്ലെങ്കിൽ ഞാൻ ഇതിനെ യഥാർത്ഥ പരിഹാരം എന്ന് വിളിക്കട്ടെ ഇത് നിങ്ങൾ കണക്കാക്കുന്ന ആദ്യത്തെ പരിഹാരം മാത്രമാണ് ഇത് നോൺ ലീനിയർ ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ സൊല്യൂഷനുകളിൽ നിന്നായിരിക്കണം ഇതിന് കുറുക്കുവഴികളൊന്നുമില്ല VS മാറുമ്പോൾ തുടർന്നുള്ള പോയിന്റുകൾക്കുള്ള പരിഹാരം കണക്കാക്കുമ്പോൾ കുറച്ച് കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനാൽ VS ന്റെ ഒരു മൂല്യത്തിന് ഞങ്ങൾ കൃത്യമായി കണക്കാക്കുകയും മറ്റ് മൂല്യങ്ങൾ ഈ നോൺ ലീനിയാരിറ്റിയെ ഒരു നേർരേഖയിലൂടെ കണക്കാക്കുകയും ചെയ്യുന്നു ഞങ്ങൾ രേഖീയമല്ലാത്ത വക്രത്തിൽ അധികം പോകുന്നില്ലെന്ന് അനുമാനിക്കുന്നു ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നേർരേഖ എന്താണ് അതിനാൽ ഇത് യഥാർത്ഥ പോയിന്റിലെ ഈ വക്രത്തിന്റെ ടാൻജെന്റാണ് കൂടാതെ യഥാർത്ഥ പരിഹാരം സർക്യൂട്ടിന്റെ പ്രവർത്തന പോയിന്റ് എന്നറിയപ്പെടുന്നു അതിനാൽ ഞാൻ ഇത് ആദ്യം ഗ്രാഫിക്കായി കാണിക്കുന്നു കാരണം ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഇത് സമവാക്യങ്ങളിൽ നിന്ന് ഔപചാരികമായി തെളിയിക്കാനും കഴിയും അതിനാൽ ഞങ്ങൾ ഈ കർവിനെ ഏകദേശം കണക്കാക്കുന്നു അതായത് നീല കർവ് നോൺ ലീനിയർ ഒന്ന് ബൈ അതിന്റെ ടാൻജെന്റ് ഇത് തീർച്ചയായും പ്രവർത്തന പോയിന്റിലെ ഈ നേർരേഖയാണ് ഇപ്പോൾ പ്രവർത്തന പോയിന്റ് നിങ്ങൾ കണക്കാക്കുന്ന ആദ്യ മൂല്യമായി കണക്കാക്കാം VS ന്റെ ചില മൂല്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായ പരിഹാരം കണക്കാക്കി അത് പ്രവർത്തന പോയിന്റാണ് അതിനാൽ ഇപ്പോൾ ഇത് എങ്ങനെ സഹായിക്കുന്നു കാരണം ഇത് നേർരേഖയാണെന്ന് നിങ്ങൾക്കറിയാം മറ്റെല്ലാ പോയിന്റുകൾക്കും ഞങ്ങൾ രണ്ട് നേർരേഖകളുടെ ഇന്റർസെക്ഷൻ കണക്കാക്കുന്നു ഇത് വളരെ എളുപ്പമാണ് വാസ്തവത്തിൽ നമുക്ക് ഇന്റർസെക്ഷൻ വ്യക്തമായി കണക്കാക്കേണ്ടതില്ല ഞങ്ങൾ അത് ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചുതരാം കാരണം VS ഈ ചുവന്ന കർവിനോട് അനുബന്ധിച്ച് ഇതിലേക്ക് മാറുമ്പോൾ യഥാർത്ഥ പരിഹാരം അതാണ് എന്നാൽ നിങ്ങൾ ഇന്റർസെക്ഷൻ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഏകദേശ നേർരേഖയിൽ ഏകദേശ പരിഹാരം ഉണ്ട് അവ പരസ്പരം അടുക്കും ഒറിജിനൽ ഓപ്പറേറ്റിംഗ് പോയിന്റിനോട് അടുത്തിരിക്കുന്ന ഒരു പോയിന്റ് നിങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ അവ പരസ്പരം കൂടുതൽ അടുക്കും അതിനാൽ ഇപ്പോൾ ഞങ്ങൾ മാനദണ്ഡങ്ങൾ അവ്യക്തമായി പ്രസ്താവിക്കും മാറ്റം ചെറുതാണെങ്കിൽ നോൺ ലീനിയർ കർവ് അതിന്റെ ടാൻജെന്റ് ഉപയോഗിച്ച് ഏകദേശം കണക്കാക്കുന്നത് മതിയായ പരിഹാരങ്ങൾ നൽകുന്നു അതിനാൽ ഞങ്ങൾ ഇത് ചെയ്യും ഇപ്പോൾ ഇത് ഏകദേശമാണ് എന്നാൽ ഈ ഏകദേശം വളരെ നല്ലതും പ്രായോഗികമായ സന്ദർഭവുമാണെന്ന് ഇത് മാറുന്നു അതിനാൽ ഞങ്ങൾ ഇത് വ്യാപകമായി ഉപയോഗിക്കും എന്നാൽ തീർച്ചയായും ഈ ഏകദേശത്തിന്റെ പരിമിതികൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്ന് വളരെ ദൂരം പോകരുത് കൂടാതെ എത്ര ദൂരമുണ്ട് എന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സന്ദർഭത്തെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ ഇത് നിങ്ങൾ ആദ്യം തന്നെ എത്ര കൃത്യത ആഗ്രഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു പരിഹാരം വളരെ കൃത്യതയുള്ളതായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്ന് വളരെ ദൂരം പോകാൻ കഴിയില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ ക്രൂഡ് സൊല്യൂഷനുകൾ ശരിയാണെങ്കിൽ പല കേസുകളും നിങ്ങൾ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് പ്രവർത്തന പോയിന്റിൽ നിന്ന് കൂടുതൽ മുന്നോട്ട് പോകാം